നമസ്തേ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൌണ്ടിംഗിന്റെ ആദ്യ രണ്ടു ഭാഗങ്ങളിൽ കോസ്റ്റ് അക്കൌണ്ടിങ് എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു പിന്നീട് ചെലവുകളുടെ വ്യത്യസ്ത വർഗ്ഗീകരണങ്ങൾ എന്തൊക്കെയാണെന്നും അവസാനഭാഗത്ത് അതായത് ഭാഗം മൂന്നിൽ നമ്മൾ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ആരംഭിച്ചു നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഇത് തീരുമാനമെടുക്കുന്നതിന് വളരെ ഉപയോഗപ്രദമായ ഒരു സാങ്കേതികതയാണ് പ്രത്യേകിച്ച് ഹ്രസ്വകാല തീരുമാനങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമാണ് കോസ്റ്റ് വോളിയം ലാഭവിശകലനം എങ്ങനെ നടത്താം അല്ലെങ്കിൽ അടിസ്ഥാനകാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് അടിസ്ഥാനപരമായി ചെലവുകളുടെ വർഗീകരണത്തെ എങ്ങനെ ആശ്രയിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ ആരംഭത്തിൽ ചർച്ച ചെയ്തത് ആ ചെലവ് വർഗ്ഗീകരണം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ചെലവുകളെ എങ്ങനെ തരം തിരിക്കും വേരിയബിളിറ്റിയെ അടിസ്ഥാനമാക്കി നിങ്ങൾ ചെലവ് തരംതിരിക്കുമോ സി വി പി വിശകലനത്തിന്റെ മുഴുവൻ ഘടനയും വേരിയബിലിറ്റി അനുസരിച്ച് വർഗ്ഗീകരണത്തിന്റെ സാധ്യതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പേര് സൂചിപ്പിക്കുന്നതുപോലെ നമുക്ക് രണ്ടുതരത്തിലുള്ള ചെലവ് ലഭിക്കുന്നു നമുക്ക് ലഭിക്കുന്ന ആദ്യ ചെലവ് നേരിട്ടുള്ള ചെലവാണ് ഞാൻ നേരിട്ട് ഗ്രാഫിലേക്ക് കടക്കുന്നു സ്ഥിരമായ ചെലവ് ഇങ്ങനെയാണ് കാണപ്പെടുന്നത് ഗ്രാഫ് പൂർണ്ണമായും പരന്നതാണ് അതായത് 0 യൂണിറ്റ് മുതൽ 800 യൂണിറ്റ് വരെ മൊത്തത്തിലുള്ള നിശ്ചിത ചെലവ് സ്ഥിരമായി തുടരും ഗ്രാഫ് പ്രകാരം ഇത് ഏകദേശം 80000 ആണെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ നിങ്ങൾ 0 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാലും നിശ്ചിത വില 80000 ആണ് നിങ്ങൾ 800 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാലും ചെലവ് 80000 ആണ് അതിനാൽ സ്വാഭാവികമായും ഒരു യൂണിറ്റിന്റെ വില വളരെ കുത്തനെ പോകുന്നു നിങ്ങൾ ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നിശ്ചിത ചെലവ് 1ന് 80000 ആയിരിക്കും അതിനാൽ ഓരോ യൂണിറ്റിനും 80000 ആയിരിക്കും എന്നാൽ നിങ്ങൾ 800 യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് 800 ൽ 80000 ആകും മനസ്സിലായോ അതായത് ഇപ്പോൾ അത് ഗണ്യമായി കുറഞ്ഞു യൂണിറ്റിന് 100 രൂപ മാത്രം അതിനാൽ യൂണിറ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇത് കുറയുന്നു അതുകൊണ്ടാണ് സാധാരണ ഒരു യൂണിറ്റിന് നിശ്ചിത വില നോക്കരുത് എന്ന് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് നിർവചനം അനുസരിച്ച് നിശ്ചിത ചെലവ് മൊത്തത്തിൽ സ്ഥിരമായതിനാൽ ഇത് കൂടുതൽ കണക്കിലെടുക്കുന്നില്ല ഒരു യൂണിറ്റ് അടിസ്ഥാനത്തിൽ യൂണിറ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇത് കുറയും പക്ഷേ മൊത്തം നിശ്ചിത ചെലവ് എന്ന നിലയിൽ ഇത് സ്ഥിരമായി തുടരും നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്ത ഉദാഹരണങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും ഉദാഹരണം നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വാടകയെക്കുറിച്ചും ഇൻഷുറൻസ് അല്ലെങ്കിൽ മൂല്യത്തകർച്ചയെക്കുറിച്ചോ നമ്മൾ ചർച്ച ചെയ്തിരുന്നു പ്രവർത്തന നിലവാരത്തിനനുസരിച്ച് മാറാത്ത മറ്റേതെങ്കിലും നിശ്ചിത ചെലവിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ നമുക്ക് അതിനെ ലൈസൻസ് ഫീസ് എന്ന് പറയാം നമ്മൾ ഒരു ഫാക്ടറി പ്രവർത്തിപ്പിക്കുന്നു നമ്മൾ വാർഷിക അടിസ്ഥാനത്തിൽ ലൈസൻസ് ഫീസ് അടയ്ക്കുന്നു നിങ്ങൾ വ്യവസായസ്ഥാപനം സ്ഥാപിക്കാനും അത് പ്രവർത്തിപ്പിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് മാറില്ല അത് സ്ഥിരമായി തുടരുന്ന എല്ലാ വർഷവും നിങ്ങൾ ലൈസൻസ് ഫീസ് നൽകണം നിങ്ങൾ ഒരു വ്യവസായ സ്ഥാപനത്തിൽ ചേരുകയാണെങ്കിൽ ഉൽപ്പാദനം പരിഗണിക്കാതെ നിങ്ങൾ ലൈസൻസ് ഫീസ് അടയ്ക്കുന്നു അതിനാൽ ഇത് ഒരു നിശ്ചിത ചെലവായി തുടരുന്നു മറ്റ് തരത്തിലുള്ള ചിലവ് വേരിയബിൾ ആണ് ഇത് ഗ്രാഫ് വീണ്ടും നോക്കുക അത് 0 ൽ നിന്ന് ആരംഭിച്ച് ഒരു നേർരേഖയായി മുകളിലേക്ക് പോകുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഓരോ അധിക യൂണിറ്റിനും ഒരു അധിക നിശ്ചിത വിലയുണ്ട് 100 യൂണിറ്റിന് ഏകദേശം 1000 200 യൂണിറ്റിന് 20000 എന്നിങ്ങനെയാണ് ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് 800 യൂണിറ്റിന് അത് 80000 ൽ എത്തി അപ്പോൾ ഓരോ യൂണിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇത് എത്രയാണ് 100ന് 10000 അതായത് ഒരു യൂണിറ്റിന് 100 യൂണിറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റിന്റെ നിർവചനമായ യൂണിറ്റിന് 100 എന്ന അതേ അനുപാതത്തിൽ അത് വർദ്ധിക്കും എന്തെങ്കിലും ഉദാഹരണം നേരിട്ടുള്ള സാമഗ്രികൾ നേരിട്ടുള്ള തൊഴിലാളികൾ അല്ലെങ്കിൽ ഒരു വാഹനത്തിനുള്ള പെട്രോൾ വില തുടങ്ങിയ ചില ഉദാഹരണങ്ങൾ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടിരുന്നു മറ്റെന്തെങ്കിലും ഉദാഹരണം നിങ്ങൾ ഒരു ലൈസൻസ് സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നതെന്നും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പണം നൽകുമെന്നും കരുതുക അതിനാൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോഴെല്ലാം കുറച്ച് ഫീസ് നൽകണം അതിനാൽ ഓരോ യൂണിറ്റിനും ലൈസൻസ് സോഫ്റ്റ്വെയറിന്റെ വില കൂടുന്നതിനനുസരിച്ച് യൂണിറ്റുകൾ കൂടുന്നു മനസ്സിലായോ നിങ്ങൾക്ക് ഒറ്റത്തവണയായി ലൈസൻസ് ലഭിച്ചുവെന്നോ അല്ലെങ്കിൽ വാങ്ങിയെന്നോ കരുതുക നിങ്ങൾ ആ സോഫ്റ്റ്വെയർ പരിശോധിക്കുമ്പോൾ അത് ഒരു വേരിയബിൾ ചെലവായി മാറുന്നു മനസ്സിലായോ മൂന്നാമത്തേത് സെമി വേരിയബിൾ കോസ്റ്റാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ അവയ്ക്ക് വ്യതിയാനത്തിന്റെ ഒരു ഘടകമുണ്ട് അതിനാൽ അവ പ്രവർത്തന നിലവാരത്തിനനുസരിച്ച് മാറുന്നു എന്നാൽ അനുപാതത്തിൽ മാറ്റം വരുത്തരുത് ഇത് സ്ഥിരമല്ല അതിനാൽ നമുക്ക് ഇതിനെ സ്ഥിരമെന്ന് വിളിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇതിനെ സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത് എന്തെങ്കിലും ഉദാഹരണം കഴിഞ്ഞ തവണ നമ്മൾ അറ്റകുറ്റപ്പണികളെ കുറിച്ചാണ് ചിന്തിച്ചത് മറ്റ് ഉദാഹരണങ്ങളായി ടെലിഫോൺ ബില്ലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് മറ്റെന്തെങ്കിലും കാരണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ സാധാരണയായി നന്നാക്കുന്ന പ്രക്രിയയും അറ്റകുറ്റപ്പണികൾക്ക് സമാനമാണ് ഉപയോഗം കൂടുന്നതിനനുസരിച്ച് അറ്റകുറ്റപ്പണികൾ കൂടാൻ സാധ്യതയുണ്ട് മനുഷ്യൻ തളർന്നുപോകുന്നതിനാൽ ചില മനുഷ്യച്ചെലവുകളും അർദ്ധ വേരിയബിൾ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നു സൈദ്ധാന്തികമായി ഇത് വേരിയബിളാണ് പക്ഷേ കുറച്ചു ഭാഗം ഇതിൽ പഠനത്തിന്റെ ഒരു ഘടകമുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അടുത്ത യൂണിറ്റിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കുറച്ചു ഭാഗം ഉത്പാദിപ്പിക്കാൻ കഴിയും അതിനാൽ ഇതിന് ഒരു വ്യതിയാനമുണ്ടാകാം യഥാർത്ഥ ജീവിതത്തിൽ ഇത് വിവിധ തരത്തിലുള്ള വക്രങ്ങളാകാം എന്നാൽ സി വി പി വിശകലന അനുമാനം അനുസരിച്ച് ചെലവ് മണിക്കൂർ നേർരേഖയിലാണെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അതിനാലാണ് നമ്മൾ സാധാരണയായി ഗ്രാഫിന് പടിപടിയായുള്ള ഈ രൂപം ഉപയോഗിക്കുന്നത് ഇപ്പോൾ സി വി പി വിശകലനം ചെലവ് ആവശ്യമുള്ള വിൽപ്പന നിലവാരം ആവശ്യമുള്ള ലാഭത്തിന്റെ നിലവാരം തുടങ്ങിയവയെക്കുറിച്ച് നോക്കുന്നു തുടർന്ന് സി വി പി യുടെ ലക്ഷ്യങ്ങൾ അളവുകൾ ലാഭം ചെലവുകൾ എന്നിവ തമ്മിലുള്ള ഇടപെടൽ പരിശോധിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ഇവയാണ് സി വി പി വിശകലനത്തിലെ പ്രധാന അനുമാനങ്ങൾ തീർച്ചയായും അടിസ്ഥാനപരമായി എല്ലാ ചെലവുകളും സ്ഥിരമായും അസ്ഥിരമായും തരംതിരിക്കാം എന്ന അനുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സി വി പി ബന്ധം രേഖീയമാണെന്നും വിലകൾ അല്ലെങ്കിൽ യൂണിറ്റ് വേരിയബിൾ ചെലവ് സ്ഥിരമായ ചെലവ് മുതലായവ ന്യായമായ പ്രവർത്തന പരിധിക്കുള്ളിൽ വ്യത്യാസപ്പെടില്ലെന്നും നിങ്ങൾക്ക് അനുമാനിക്കാം അതിനാൽ നമ്മൾ ആ ശ്രേണി അറിഞ്ഞിരിക്കണം കൂടാതെ അളവ് മാത്രമാണ് ചെലവിനെ നയിക്കുന്നത് ഇൻവെന്ററി തലങ്ങൾ മാറില്ല ഈ അനുമാനങ്ങൾ ആശയപരമായി വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും ഒരു വ്യക്തിഗത അനുമാനത്തെ നേർപ്പിക്കുന്ന വിവിധ സന്ദർഭങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പക്ഷേ തുടക്കത്തിൽ നിങ്ങൾ ഈ അനുമാനങ്ങൾ അറിയുകയും ഈ അനുമാനങ്ങൾ ഉപയോഗിച്ച് ന്യായമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് തുടക്കത്തിൽ തന്നെ ഈ അനുമാനങ്ങളുമായി മുന്നോട്ട് പോയാൽ തീരുമാനമെടുക്കുന്നതിന് ഇത് വളരെ ഉപയോഗപ്രദമാണ് ആ കാലയളവിൽ വിൽപ്പന മിശ്രിതവും മാറ്റമില്ലാതെ തുടരണം ഇനി നമുക്ക് പി വി അനുപാതം അല്ലെങ്കിൽ ലാഭ വോളിയം അനുപാതം എന്നറിയപ്പെടുന്ന അടുത്ത ആശയത്തിലേക്ക് പോകാം ഇതിന് സംഭാവന മാർജിൻ അനുപാതം എന്നറിയപ്പെടുന്ന മറ്റൊരു പേരുമുണ്ട് ഇപ്പോൾ ഈ അനുപാതം മനസ്സിലാക്കാൻ ആദ്യം നിങ്ങൾ സംഭാവന എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോ അധിക യൂണിറ്റിനും ഉപഭോക്താവിൽ നിന്ന് നിശ്ചിത വിൽപ്പന വില വീണ്ടെടുക്കാൻ കഴിയുമെന്നും അതിനായി വേരിയബിൾ ചെലവ് വഹിക്കേണ്ടിവരുമെന്നും നമ്മൾക്കറിയാം നിശ്ചിത ചെലവ് മാറില്ല അതിനാൽ നിശ്ചിത ചെലവ് അവഗണിക്കാം എന്നാൽ ഒരു അധിക യൂണിറ്റിൽ നിന്ന് നിങ്ങൾ സമ്പാദിക്കുന്നത് നിങ്ങളുടെ വിൽപ്പന വിലയും നിങ്ങൾ അടയ്ക്കുന്ന വേരിയബിൾ കോസ്റ്റുമാണ് അതിനാൽ വിൽപ്പന വിലയും വേരിയബിൾ വിലയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടെത്തുന്നു കൂടാതെ വേരിയബിൾ ചെലവിനേക്കാൾ എന്ത് തുക നിങ്ങൾക്ക് അധികം ലഭിക്കുന്നുവോ അത് സംഭാവന മാർജിൻ എന്നറിയപ്പെടുന്നു മനസ്സിലായോ അതിനാൽ 10 രൂപ ഒരു വിൽപ്പന വിലയാണെന്ന് കരുതുക ഒരു യൂണിറ്റിൽ നിന്ന് 10 രൂപ സമ്പാദിക്കുന്നതിന് എനിക്ക് 8 രൂപ വേരിയബിൾ കോസ്റ്റ് നൽകണം അതിനാൽ 10ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 2 എന്നത് ഞാൻ നേടിയ മൊത്ത ലാഭമാണ് നിങ്ങളിൽ അക്കൌണ്ടിംഗ് അറിയാവുന്നവർക്ക് മനസ്സിലാകും നമ്മൾ അതിനെ മൊത്ത ലാഭം എന്ന് വിളിക്കും ഇവിടെ നമുക്ക് അതിനെ ഏതാണ്ട് ഒരു സംഭാവന എന്ന് വിളിക്കാം അതിനാൽ യൂണിറ്റിന് 10ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 2 രൂപ നിങ്ങളുടെ സംഭാവനയാണ് നിങ്ങൾ അതിനെ 2ൽ നിന്ന് 10 എന്ന അനുപാതമായി പരിവർത്തനം ചെയ്താൽ 10 എന്നത് ഒരു വിൽപ്പന വിലയാണ് അതിനാൽ യൂണിറ്റിന് വിറ്റഴിക്കുമ്പോൾ ഓരോ യൂണിറ്റിനും സംഭാവന മാർജിൻ ശതമാനം ലഭിക്കും അതിനാൽ ഈ ഉദാഹരണത്തിന് സംഭാവന മാർജിൻ 20 ശതമാനമാണ് ഇത് പി വി അനുപാതം അല്ലെങ്കിൽ ലാഭ അളവ് അനുപാതം എന്നും അറിയപ്പെടുന്നു ഇത് എങ്ങനെ കണക്കാക്കാം ഏതെങ്കിലും കേസ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട കണക്കുകൂട്ടലാണിത് അതിനാൽ ലാഭം മൊത്തത്തിൽ ഉയർന്നു ഞാനിപ്പോൾ ഒറ്റ വരിയിൽ കാര്യം പറയുകയാണ് മൊത്തത്തിൽ ലാഭം എന്നത് വിൽപ്പനയിൽ നിന്നും മൊത്തം ചെലവ് കുറയ്ക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ മൊത്തം ചെലവിനെ വേരിയബിളും സ്ഥിരവുമായ 2 ഘടകങ്ങളായി വിഭജിക്കുന്നു അതിനാൽ ലാഭം എന്നത് വിൽപ്പനയിൽ നിന്ന് മൊത്തം വേരിയബിൾ ചെലവിൽ നിന്ന് മൊത്തം നിശ്ചിത ചെലവിൽ നിന്ന് ഒഴിവാക്കുന്നു ഇപ്പോൾ സംഭാവന മാർജിൻ മൊത്തം വരുമാനം മൈനസ് മൊത്തം ഫിക്സഡ് കോസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞങ്ങൾക്ക് കണക്കാക്കാം അതിനാൽ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് വിൽപ്പന മൈനസ് വേരിയബിൾ ചെലവ് മറ്റൊന്നുമല്ല മറിച്ച് ഒരു സംഭാവന മാർജിനാണ് അതിനാൽ ലാഭം സംഭാവന മാർജിൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഈ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു പി എൽ അക്കൌണ്ടിൽ ലാഭം ലഭിക്കാൻ നമ്മൾ വിൽപ്പനയും ചെലവും താരതമ്യം ചെയ്യുന്നു എന്നാൽ ഇവിടെ നമ്മൾ വേരിയബിളിറ്റി പരിഗണിക്കുന്നു അതിനാൽ ലാഭം കണക്കാക്കുന്നതിന് വിൽപ്പനയിൽ നിന്ന് വേരിയബിൾ ചെലവ് കുറയ്ക്കുമ്പോൾ സംഭാവന കുറച്ചു കൊണ്ടുള്ള നിശ്ചിത ചെലവ് ലഭിക്കുന്നു മനസ്സിലായോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കൂടുതൽ സമവാക്യങ്ങൾ ലഭിക്കും കാരണം വിൽപ്പനയുടെ താരതമ്യവും വേരിയബിൾ ചെലവും യൂണിറ്റ് അടിസ്ഥാനത്തിൽ മാറുന്ന മുകൾ ഭാഗവും നമ്മൾക്കറിയാം അതിനാൽ നമുക്ക് അവിടെയുള്ള യൂണിറ്റുകളുടെ അളവോ എണ്ണമോ സംയോജിപ്പിക്കാം അതിനാൽ നിങ്ങൾക്ക് ഈ സമവാക്യം ലഭിക്കും ലാഭം Q FC ഓർക്കുക എഫ്സിക്ക് അളവുമായി യാതൊരു ബന്ധവുമില്ല അത് അളവ് പരിഗണിക്കാതെ തന്നെ തുടരും എന്നാൽ വിൽപനയും വേരിയബിൾ വിലയും ആയ എസ് വി യൂണിറ്റ് അടിസ്ഥാനത്തിൽ സ്ഥിരമാണ് അതിനാൽ എസ് എന്നത് ഇപ്പോൾ ഒരു യൂണിറ്റ് വി സി യ്ക്ക് വിൽക്കുന്ന വിലയായി നിർവചിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വി എന്നത് ഒരു യൂണിറ്റിന് വേരിയബിൾ കോസ്റ്റ് ആണ് അതിനാൽ നമ്മൾ ചെയ്യുന്നത് ബ്രാക്കറ്റിൽ അത് യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള എസ് വി എന്നെടുക്കും അതിനെ ക്യു കൊണ്ട് ഗുണിക്കുക ക്യു ആ തലത്തിലുള്ള ലാഭത്തിന് വിൽക്കാൻ ആവശ്യമായ യൂണിറ്റുകളുടെ എണ്ണം ആണ് മനസ്സിലാകുന്നുണ്ടോ അതിനാൽ ലാഭം Q FC ഇപ്പോൾ നിങ്ങൾക്ക് ക്യു അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇതേ സമവാക്യം ഉപയോഗിച്ച് അവശ്യ യൂണിറ്റുകളായ ആയ എഫ് സി യും ലാഭവും കണക്കുകൂട്ടാനാകും കാരണം എഫ് സി ഒരുവശത്തേക്കു പോകും അപ്പോൾ QFCProfit S VC അടുത്തതായി ഒരു യൂണിറ്റിന്റെ വില്പന വില നമ്മൾ ചർച്ച ചെയ്ത വിൽപന വില 10 ആണെന്ന് അനുമാനിക്കുക വേരിയബിൾ വില 8 ആയും കണക്കാക്കുക അപ്പോൾ വിൽക്കുന്ന ഓരോ യൂണിറ്റിലും 10 ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ ആ 2 രൂപ നമ്മൾ നേടുന്നു അതിനാൽ നിങ്ങൾക്ക് നിശ്ചിത തലത്തിലുള്ള ലാഭം നേടാൻ എത്ര യൂണിറ്റുകൾ വിൽക്കണം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന വിൽപ്പന നില കണക്കാക്കുന്നത് അത് ലാഭ ആസൂത്രണം എന്നും അറിയപ്പെടുന്നു മനസ്സിലാകുന്നുണ്ടോ അതിനാൽ ഇത് പിവി അനുപാതം എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കുകൂട്ടലാണ് ഇനി നമുക്ക് അടുത്ത കണക്കുകൂട്ടലിലേക്ക് പോകാം അതായത് ബ്രേക്ക്ഈവൻ പോയിന്റ് ആവശ്യമായ ഉൽപ്പാദനത്തിന്റെ ഏറ്റവും കുറഞ്ഞ നില അറിയാൻ ബ്രേക്ക് ഈവൻ വിശകലനം ഉപയോഗിക്കുന്നു ഓരോ കമ്പനിയും എല്ലാ യൂണിറ്റുകളും അല്ലെങ്കിൽ എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും നഷ്ടം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു ചുവപ്പ് നിറത്തിൽ പോകാൻ അത് ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഏറ്റവും കുറഞ്ഞ അളവിലെങ്കിലും യൂണിറ്റുകൾ നിർമ്മിക്കേണ്ടതുണ്ട് ആ കുറഞ്ഞ അളവിലുള്ള യൂണിറ്റുകൾ ബ്രേക്ക്ഈവൻ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത് എന്തിനുവേണ്ടിയാണ് കുറച്ച് എടുക്കുന്നത് നഷ്ടം ഒഴിവാക്കാനായാണ് ഇത് അനുയോജ്യമായ വിൽപ്പന മിശ്രണം കണ്ടെത്തുന്നതിന് ഇത് ഉപയോഗപ്രദമാണ് നഷ്ടം ഒഴിവാക്കാൻ വില്പന മിശ്രണം സഹായിക്കും ആവശ്യമുള്ള വിൽപ്പന നിലവാരം കണക്കാക്കുന്നതിനും ഇത് ഉപയോഗപ്രദമാണ് കൂടാതെ ചില പ്രത്യേക തലത്തിലുള്ള വിൽപ്പനയിലും വിലയിലും ലാഭം അറിയാൻ നമ്മൾക്ക് ഇത് ഒരു മെച്ചപ്പെട്ട മാർഗമാണ് ഇപ്പോൾ സി വി പി വിശകലനത്തിൽ നിന്ന് നമ്മൾ ബി ഇ പി അല്ലെങ്കിൽ ആ തലത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് വരുന്നു അതിൽ നിന്നുള്ള വരുമാനം സ്ഥിരവും അസ്ഥിരവും ആയ ചെലവുകളെ വീണ്ടെടുക്കുന്നു പക്ഷേ ലാഭം ഉണ്ടാകുന്നില്ല അതിനാൽ പൂജ്യം യൂണിറ്റുകളിൽ നിന്ന് ആരംഭിക്കുമ്പോൾ നമ്മൾ നഷ്ടത്തിലാകും നമ്മളുടെ യൂണിറ്റുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ലാഭമോ നഷ്ടമോ ഇല്ലാത്ത ഒരു അവസ്ഥ വരുന്നു അത് ബ്രേക്ക്ഈവൻ പോയിന്റ് എന്നറിയപ്പെടുന്നു ബ്രേക്ക്വെൻ പോയിന്റിനപ്പുറം ഒരു കമ്പനിയോ വ്യവസായശാലയോ ലാഭമുണ്ടാക്കാൻ തുടങ്ങുന്നു സി വി പി വിശകലനം പോലെ തന്നെ ബ്രേക്ക്വെൻ പോയിന്റും ഉപയോഗപ്രദമാണ് പ്രത്യേകിച്ചും വിലനിർണ്ണയ തീരുമാനങ്ങൾക്കും താൽക്കാലിക അടച്ചുപൂട്ടൽ തീരുമാനങ്ങൾക്കും നിർമ്മിക്കണോ വാങ്ങിക്കണോ എന്നുള്ള തീരുമാനങ്ങൾക്കും തുടങ്ങിയവ മറ്റു ചില തീരുമാനങ്ങൾ ആധുനികവൽക്കരണം അല്ലെങ്കിൽ യന്ത്രവൽക്കരണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളാണ് അതിനാൽ നമ്മൾ പുതിയ യന്ത്രത്തിലേക്ക് പോകണോ വേണ്ടയോ വിപുലീകരണത്തിന് തയ്യാറാകണമോ വേണ്ടയോ ഒരു പുതിയ ഉൽപ്പന്ന പുറത്തിറക്കാൻ കഴിയുമോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളിൽ സി വി പി അല്ലെങ്കിൽ ബി ഇ പി വിശകലനത്തെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ് ഇനി ചില സൂത്രവാക്യങ്ങൾ കാരണം നിങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ സൂത്രവാക്യങ്ങൾ ഉപയോഗപ്രദമാകും ബി ഇ പി കണക്കാക്കുന്നതിന് നമ്മളുടെ പ്രധാന ലക്ഷ്യം നിശ്ചിത ചെലവുകൾ വീണ്ടെടുക്കുക എന്നതാണ് അതിനാൽ നമ്മൾ ന്യൂമറേറ്ററിൽ നിശ്ചിത ചെലവ് എടുത്തതിനുശേഷം യൂണിറ്റ് സംഭാവന കൊണ്ട് അതിനെ വിഭജിക്കുന്നു നമ്മളുടെ ഉദാഹരണത്തിൽ വിൽപ്പന വില 10 രൂപയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു വേരിയബിൾ വില 8 രൂപയാണ് അതിനാൽ ഒരു യൂണിറ്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾ 2 രൂപ ലാഭമോ സംഭാവനയോ ഉണ്ടാക്കുന്നു നിശ്ചിത ചെലവുകൾ 1000 ആണെന്ന് നമുക്ക് പറയാം അതിനാൽ 2ന് 1000 അതായത് 500 യൂണിറ്റുകളാണ് നിങ്ങളുടെ ബി ഇ പി മനസ്സിലായോ അതിനാൽ നഷ്ടം ഒഴിവാക്കാൻ കുറഞ്ഞത് 500 യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കണം നിങ്ങൾക്ക് ബി ഇ പി ഒരു വിൽപ്പന മൂല്യമായി കണക്കാക്കണമെങ്കിൽ നമ്മൾ നിശ്ചിത വില 1000 ആണെന്ന് അനുമാനിക്കുന്നു അതിനാൽ 1000 പിവി അനുപാതം കൊണ്ട് ഹരിക്കണോ പിവി അനുപാതം എത്രയായിരുന്നു 10 ഗുണം 2 അതായത് 20 ശതമാനം അതിനാൽ നിങ്ങൾ 1000നെ 20 ശതമാനം കൊണ്ട് ഹരിച്ചാൽ 1000 ഒരു നിശ്ചിത ചെലവാണ് 20 ശതമാനം നിങ്ങൾ സമ്പാദിക്കുന്ന മാർജിനാണ് അതായത് നഷ്ടം ഒഴിവാക്കാൻ നിങ്ങൾ കുറഞ്ഞത് 5000 വിൽപ്പന നടത്തണം നിങ്ങളുടെ വിൽപ്പന 5000 ന് മുകളിൽ പോകുമ്പോൾ നിങ്ങൾ ലാഭം നേടാൻ തുടങ്ങും വിൽപ്പന മൂല്യത്തിലെ ബി ഇ പി യും വളരെ പ്രധാനമാണ് കാരണം നിങ്ങൾക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു യൂണിറ്റ് ഇല്ലായിരിക്കാം നിങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള ഉൽപ്പന്നങ്ങളോ വ്യത്യസ്ത തരത്തിലുള്ള സേവനങ്ങളോ വിൽക്കുന്നുണ്ടാകാം എന്നാൽ നിങ്ങൾക്ക് മാർജിൻ അറിയാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ PV അനുപാതത്തിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ബി ഇ പി ഒരു വിൽപ്പന മൂല്യമായി കണക്കാക്കാം അതിനാൽ രണ്ട് സമവാക്യങ്ങളും ഉപയോഗപ്രദമാണ് സി വി പി യുടെ അറിവ് ഉപയോഗിച്ച് നമുക്ക് ചെലവ് വോളിയം ലാഭം ഗ്രാഫ് കണക്കാക്കാം നമ്മൾ ഇവിടെ ബ്രേക്ക് ഈവൻ കാണിക്കുന്നതിനാൽ ചിലപ്പോൾ ഇത് ബ്രേക്ക് ഈവൻ ചാർട്ട് എന്നും അറിയപ്പെടുന്നു സമാനമായ ഒരു ഗ്രാഫ് നമ്മൾ ഇതിനകം കണ്ടു അതിനാൽ അതിൽ ഒരു നിശ്ചിത ചെലവ് രേഖ വരച്ചു അതിനാൽ ഇത് നിശ്ചിത ചെലവിന്റെ ഒരു രേഖയാണ് അപ്പോൾ അവിടെ നിന്നും മുകളിലേക്ക് പോകുന്ന ഒരു രേഖ മൊത്തം ചെലവ് രേഖയാണ് നിശ്ചിത ചെലവ് രേഖ പൂർണ്ണമായും തിരശ്ചീനമാണെന്നും മൊത്തം ചെലവ് രേഖ ഉയരുമെന്നും നിങ്ങൾക്കറിയാം ഒരു വരുമാന രേഖ വരച്ചിരിക്കുന്നു അത് 0 ൽ ആരംഭിച്ച് മൊത്തം ചെലവ് രേഖയെ മറികടക്കുന്ന വിലയ്ക്കപ്പുറം ഉയരുന്ന ഒരു ചുവന്ന വരയാണ് അതിനാൽ ഇരുവരും തമ്മിലുള്ള ഇടപെടൽ ഒരു ബ്രേക്ക്ഈവൻ പോയിന്റാണ് യഥാർത്ഥത്തിൽ ഗ്രാഫിൽ അമ്പടയാളം തെറ്റാണ് അത് ഇവിടെ എവിടെയോ ആണ് കാണിക്കുന്നത് എന്നാൽ യഥാർത്ഥ ബ്രേക്ക്ഈവൻ പോയിന്റ് ഇതാണോ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ പിസിയും പി ആറും മൊത്തം ചെലവ് രേഖയും മൊത്ത വരുമാന രേഖയും കൂടിച്ചേരുന്ന അല്ലെങ്കിൽ പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു ബിന്ദുവാണ് ബ്രേക്ക്വെൻ പോയിന്റ് ഇത് ഒരു ലോസ് ഏരിയ എന്നറിയപ്പെടുന്നു കാരണം വിൽപ്പന ബ്രേക്ക്വെൻ പോയിന്റിന് താഴെയാകുമ്പോൾ അത് ഒരു നഷ്ടമാണ് മനസ്സിലാകുന്നുണ്ടോ എന്തുകൊണ്ടാണ് നഷ്ടം സംഭവിക്കുന്നത് കാരണം നിങ്ങളുടെ വരുമാനം ബ്രേക്ക്വെൻ പോയിന്റിന് മുകളിലുള്ള മൊത്തം ചെലവിനെ മറികടക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകൂ വരുമാനം ഇപ്പോഴും മൊത്തം ചെലവിനേക്കാൾ താഴെയാണ് അതിനാൽ വരുമാനം ചെലവിനേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ യൂണിറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്നതിനാൽ ലാഭ മേഖല പരിധിയില്ലാത്തതാണ് നിങ്ങളുടെ ലാഭം വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നാൽ നഷ്ടത്തിന്റെ വിസ്തീർണ്ണം താരതമ്യേന പരിമിതമാണ് കാരണം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കാൻ കഴിയുന്ന പരമാവധി നഷ്ടം നിങ്ങളുടെ നിശ്ചിത ചെലവിന് തുല്യമാണ് തീർച്ചയായും നിശ്ചിത വിലയും വേരിയബിൾ വിലയും മാറില്ല എന്ന നമ്മുടെ അനുമാനങ്ങൾക്ക് വിധേയമായി പരമാവധി നഷ്ടം എന്നാൽ ഇതാണ് ഇപ്പോൾ ഈ പ്രത്യേക ബ്രേക്ക്ഈവൻ പോയിന്റ് നിങ്ങൾക്ക് ഇത് യൂണിറ്റ് അടിസ്ഥാനത്തിലോ എണ്ണൽ സംഖ്യയുടെ അടിസ്ഥാനത്തിലോ വില്പന അടിസ്ഥാനത്തിലോ കണ്ടെത്താൻ കഴിയും ഒരുപക്ഷേ ഈ രേഖ അൽപ്പം തെറ്റായിരിക്കാം എന്നാൽ ബ്രേക്ക്ഈവൻ പോയിന്റിൽ നിന്ന് നിങ്ങൾ ഇത് യൂണിറ്റുകളിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ ബ്രേക്ക്ഈവൻ യൂണിറ്റിന്റെ Break even Unit's ഓരോ തലങ്ങളിലും എത്ര യൂണിറ്റുകൾ വീതം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും കൂടാതെ നിങ്ങൾ ഇത് രൂപയിൽ വിൽപ്പനയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് സമവാക്യങ്ങളും നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ് യൂണിറ്റിലെ ബ്രേക്ക് ഇവനും Break even in Unit's അതുപോലെ വിൽപനയിലെ ബ്രേക്ക് ഇവനും അതിനാൽ ബ്രേക്ക് ഈവൻ ചാർട്ടായ ബി ഇ ചാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് രൂപയിലും യൂണിറ്റിലുമുള്ള ബ്രേക്ക് ഇവൻ കണക്കാക്കാം മനസ്സിലാകുന്നുണ്ടോ ഇനി നമുക്ക് വളരെ ലളിതമായ ഒരു രൂപരേഖ നോക്കാം കൃഷ്ണ ഗെയിം ഒരു പുതിയ കളിപ്പാട്ട ബൈക്ക് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു വിപണി ഗവേഷണത്തെ അടിസ്ഥാനമാക്കി അവർ ചില വിവരങ്ങൾ ശേഖരിച്ചു ഒരു ബൈക്കിന് സാധ്യതയുള്ള വില 800 വേരിയബിൾ കോസ്റ്റ് 300 ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട നിശ്ചിത ചെലവ് 55 ലക്ഷം ഉദ്ദേശിക്കുന്ന ലാഭം 2 ലക്ഷം മൊത്തം വിൽപ്പന 12000 എന്നിങ്ങനെയാണ് ഇപ്പോൾ ഈ വിവരങ്ങളെ അടിസ്ഥാനമാക്കി ബ്രേക്ക്ഈവൻ പോയിന്റ് കണക്കാക്കാൻ ശ്രമിക്കുക തീർച്ചയായും ബ്രേക്ക്ഈവൻ പോയിന്റ് കണക്കാക്കുന്നതിന് നിങ്ങൾ പി വി അനുപാതവും കണക്കാക്കേണ്ടതുണ്ട് അതിനാൽ പി വി അനുപാതം കണക്കാക്കുക ബ്രേക്ക് ഈവൻ പോയിന്റ് കണക്കാക്കുക ലക്ഷ്യ ലാഭം നേടുന്നതിന് ആവശ്യമായ വിൽപ്പനയുടെ അളവ് കണക്കാക്കുക കാരണം ബ്രേക്ക്വെനിൽ അവർക്ക് ലാഭമൊന്നും ഉണ്ടാകില്ല യഥാർത്ഥത്തിൽ അവർക്ക് 2 ലക്ഷം ലാഭം വേണം അതിനാൽ ആ ലാഭത്തിന്റെ ലക്ഷ്യ വിൽപ്പന എന്തായിരിക്കും അവർ യഥാർത്ഥത്തിൽ 12000 വിൽപന നേടിയാൽ ലാഭം എന്തായിരിക്കും ഇതെല്ലാം കണക്കാക്കാൻ ശ്രമിക്കുക അത് ഒരു സാമാന്യബുദ്ധി മാത്രമാണെന്ന് ഞാൻ കരുതുന്നു അതിനാൽ നിങ്ങൾ സംഭാവനയിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ സംഭാവന എത്രയാണ് വിൽപ്പന വിലയിൽ നിന്ന് വി സി കുറയ്ക്കുക അതായത് 800 ൽ നിന്ന് 300 കുറച്ച് 500 ലഭിക്കുന്നു അതാണ് ഓരോ യൂണിറ്റിലുമുള്ള സംഭാവന അതിനാൽ അവർ വിൽക്കുന്ന ഓരോ ബൈക്കിനും 500 മാർജിൻ ഉണ്ടാക്കുന്നു അവർ വെറും 1 ബൈക്ക് വിൽക്കുമ്പോൾ അവർ 500 മാർജിൻ ഉണ്ടാക്കും പക്ഷേ അവർക്ക് വലിയ നിശ്ചിത വിലയുണ്ടാകുമെന്ന് ഓർമ്മിക്കുക 55 ലക്ഷം രൂപയാണ് നിശ്ചിത ചെലവ് അതിനാൽ അവർ വെറും 1 ബൈക്ക് നിർമ്മിച്ചാൽ അവർക്ക് 500 മാത്രമേ ലഭിക്കൂ 55 ലക്ഷത്തിൽ എത്തിച്ചേരാൻ പര്യാപ്തമായ മാർജിൻ ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നു അത് അവരുടെ ബ്രേക്ക്ഈവൻ പോയിന്റായിരിക്കും അപ്പോൾ നിങ്ങൾ എങ്ങനെ ബി ഇ പി കണക്കാക്കും നിശ്ചിത ചെലവ് യൂണിറ്റിനെ സംഭാവനയുമായി ഹരിച്ചാൽ 55 ലക്ഷം മുതൽ 500 വരെ ലഭിക്കും ഇപ്പോൾ അവരുടെ ബ്രേക്ക്ഈവൻ പോയിന്റ് എന്താണ് മനസ്സിലാകുന്നുണ്ടോ ഇത് 10000 ആണോ നമുക്ക് കണക്കുകൂട്ടൽ നോക്കാം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണക്കുകൂട്ടി കണ്ടെത്തുക ബ്രേക്ക് ഇവന്റെ അളവ് ലക്ഷ്യം വയ്ക്കുന്ന ലാഭം പി വി അനുപാതം ബി ഇ പി പിന്നെ കണക്കാക്കപ്പെടുന്ന ലാഭം അതിനാൽ എസ്പി യിൽ നിന്ന് കുറയ്ക്കുന്നതിനുള്ള വേരിയബിൾ ചെലവ് നിങ്ങൾക്ക് യൂണിറ്റിന് 500 ന്റെ സംഭാവന ലഭിക്കുമെന്ന് നമ്മൾ കണ്ടു ഇപ്പോൾ 500 ന്റെ സംഭാവനയെ അടിസ്ഥാനമാക്കി 55 ലക്ഷം വീണ്ടെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ 500 കൊണ്ട് 55 ലക്ഷം നിങ്ങൾക്ക് 11000 ലഭിക്കും അതാണ് അളവിന് സംബന്ധിച്ചിടത്തോളം ബ്രേക്ക്ഈവൻ പോയിന്റ് അതിനാൽ കമ്പനിക്ക് 11000 ബൈക്കുകൾ വിൽക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് ബ്രേക്ക്ഈവൻ ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ 55 ലക്ഷം എന്ന നിശ്ചിത വിലയുമായി പൊരുത്തപ്പെടാൻ മതിയായ സംഭാവന അവർക്ക് ഉണ്ടായിരിക്കും മനസ്സിലായോ പക്ഷേ വാസ്തവത്തിൽ അവർ 2 ലക്ഷം ലാഭം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ അവർക്ക് 55 ലക്ഷം തിരിച്ചുപിടിക്കണം കൂടാതെ 2 ലക്ഷം ലാഭമുണ്ടാക്കണം അതായത് അവർ മൊത്തം 57 ലക്ഷം തിരിച്ചുപിടിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ 57 ലക്ഷം 500 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് 11400 ലഭിക്കും ഇതിനെ ലക്ഷ്യം വയ്ക്കുന്ന അളവ് എന്ന് വിളിക്കുന്നു അതിനാൽ കുറഞ്ഞത് 11400 ൽ എത്താൻ കഴിയുമെങ്കിൽ മാത്രമേ അവർ വ്യവസായത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ കണക്കാക്കിയ വിൽപ്പന 12000 ആണെന്ന് നിങ്ങൾക്കറിയാം നമുക്ക് ആദ്യത്തെ പി വി അനുപാതം കണക്കാക്കാം എസ് പി യുടെ 500 ൽ 800 ശതമാനം എന്ന നിലയിൽ നിങ്ങൾ യൂണിറ്റിന് സംഭാവന എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പി വി അനുപാതം 0 625 ലഭിക്കും നിങ്ങൾക്ക് ഇത് 62 5 ശതമാനമായി പ്രകടിപ്പിക്കാം ഇപ്പോൾ നിങ്ങൾ ബ്രേക്ക് ഇവൻ പോയിന്റ് രൂപയുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കണം അതായത് മൊത്തം നിശ്ചിത ചെലവ് 55 ലക്ഷത്തെ 0 625 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് 88 ലക്ഷം ലഭിക്കും അതായത് 88 ലക്ഷം രൂപ ഈവനിലേക്ക് വിറ്റു 11000 ബൈക്കുകൾ ബി ഇ പി അളവ് 800 കൊണ്ട് ഗുണിച്ചാൽ അത് ശരിയല്ല 88 ലക്ഷം രൂപയാണ് ശരി ഇപ്പോൾ കണക്കാക്കിയ ലാഭം എത്രയാണ് എന്നതാണ് അവസാന വിഷയം 12000 രൂപയുടെ വിൽപ്പനയാണ് അവർ കണക്കാക്കിയിരിക്കുന്നത് ഓരോ യൂണിറ്റിൽ നിന്നും 500 രൂപ വീതം അവർ ഉണ്ടാക്കുന്നു അങ്ങനെ 12000 മുതൽ 500 വരെ അതായത് അവർ 60 ലക്ഷം രൂപ സംഭാവനയായി സമ്പാദിക്കാൻ സാധ്യതയുണ്ട് 60 ലക്ഷം രൂപയിൽ നിന്ന് 55 ലക്ഷം രൂപ ചെലവ് നൽകണം അങ്ങനെ കണക്കാക്കിയ ലാഭം 5 ലക്ഷം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അതിനാൽ സി വി പി ബി ഇ പി വിശകലനത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള വളരെ ലളിതമായ ഒരു ചിത്രീകരണമായിരുന്നു ഇത് അടുത്ത ഭാഗത്തിൽ ഇതേ വിഷയത്തിൽ നമ്മളുടെ ചർച്ച തുടരും നന്ദി നമസ്കാരം